ഊർജ സംരക്ഷണത്തിന്റെയും വേസ്റ്റ് ഹീറ്റ് റിക്കവറിയുടെയും അടുത്ത പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഊർജ്ജ സംഭരണ സംവിധാനങ്ങളെക്കുറിച്ചുള്ള നമ്മളുടെ ചർച്ച തുടരും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പുതിയതിനെക്കുറിച്ചാണ് ഒരു പുതിയ സാങ്കേതികവിദ്യയെ അല്ലെങ്കിൽ താപോർജ്ജ സംഭരണം എന്ന പുതിയ സാങ്കേതികവിദ്യയെക്കുറിച്ചാണ് മെക്കാനിക്കൽ എനർജി സ്റ്റോറേജിനെക്കുറിച്ച് നമ്മൾ ഇതുവരെ സംസാരിച്ചിരുന്നതായി ഓർക്കുക ഇതിന്റെ കീഴിൽ വരുന്ന പമ്പ്ഡ് ഹൈഡ്രോ കംപ്രസ്ഡ് എയർ എനർജി സ്റ്റോറേജ് ഫ്ലൈ വീൽ എന്നിവ നമ്മൾ പഠിച്ചു നമ്മൾ സൂപ്പർകണ്ടക്റ്റിംഗ് കാന്തിക ഊർജ്ജ സംഭരണത്തെക്കുറിച്ചും സംസാരിച്ചു അതിനാൽ സംഭരണ ഉപകരണത്തിന്റെ അടുത്ത ക്ലാസ് താപ ഊർജ്ജ സംഭരണമാണ് അവിടെ അധിക ഊർജ്ജം താപ ഊർജ്ജത്തിന്റെ രൂപത്തിൽ സംഭരിക്കുന്നു അതുകൊണ്ട് ആദ്യം നമുക്ക് തെർമൽ എനർജി സ്റ്റോറേജ് എഴുതാം താപ ഊർജ്ജ സംഭരണത്തെ നമുക്ക് 2 ക്ലാസുകളായി തിരിക്കാം ആദ്യത്തേതിനെ നമ്മൾ സെൻസിബിൾ എനർജി സ്റ്റോറേജ് എന്നും രണ്ടാമത്തേത് ലാറ്റെന്റ് എനർജി സ്റ്റോറേജ് എന്നും വിളിക്കും താപ ശാസ്ത്രത്തെയും താപ കൈമാറ്റത്തെയും കുറിച്ചുള്ള നമ്മളുടെ അറിവിൽ നിന്ന് നിങ്ങൾക്ക് ഇതിനകം അറിയാവുന്നതിൽ നിന്ന് ഇത് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്താനാകും സെന്സിബിൾ എനർജി നിങ്ങൾ ഒരു വസ്തുവിനെ ചൂടാക്കുകയും അത് താപനില വർദ്ധിക്കുകയും ചെയ്യുന്നു ചൂട് വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും സെൻസിബിൾ എന്ന വാക്ക് വരുന്നത് അവിടെ നിന്നാണ് കൂടാതെ ഒരു താപനില ഉയരുമ്പോൾ തീർച്ചയായും ചൂടാക്കുന്ന ആബോഡിയുടെ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ആന്തരിക ഊർജ്ജം വർദ്ധിക്കുന്നു അതിനാൽ ഇപ്പോൾ നമുക്ക് ആ ഉയർന്ന താപനിലയിൽ ആ ബോഡിയെ നിലനിർത്താൻ കഴിയുന്ന ഒരു ഉപകരണം ഉണ്ടെങ്കിൽ അത് ചൂട് സംഭരിക്കുന്നു പിന്നീട് നമുക്ക് ആ താപ ഊർജ്ജം ആവശ്യമായി വരുമ്പോൾ എങ്ങനെയെങ്കിലും അത് വേർതിരിച്ചെടുക്കുന്നു ആ താപ ഊർജ്ജം നമ്മൾ നീക്കം ചെയ്യുന്നു അങ്ങനെ ആ സെൻസിബിൾ ചൂട് നീക്കം ചെയ്യുന്നു നമ്മൾ താപ ഊർജ്ജം നീക്കം ചെയ്യുമ്പോൾ താപനില വീണ്ടും കുറയുന്നു ലാറ്റെന്റ് എനർജി സ്റ്റോറേജ് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒളിഞ്ഞിരിക്കുന്ന ചൂടിനെ കൈകാര്യം ചെയ്യുന്നു അതിനർത്ഥം ഊർജ്ജം സംഭരിക്കുമ്പോഴോ തണുപ്പിക്കുമ്പോഴോ നമ്മൾ അത് ചൂടാക്കുന്നു അതിൽ നിന്ന് താപ ഊർജ്ജം വേർതിരിച്ചെടുക്കുമ്പോൾ പദാർത്ഥം ഘട്ടത്തിൽ മാറ്റത്തിന് വിധേയമാകുന്നു സാധാരണ ഘട്ടത്തിൽ മാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഖരത്തിൽ നിന്ന് ദ്രാവകത്തെയോ ദ്രാവകത്തിൽ നിന്ന് ഖരത്തെയോ ആണ് അങ്ങനെ ഫ്യൂഷന്റെ ഒളിഞ്ഞിരിക്കുന്ന ചൂട് ഉരുകുന്നതിന്റെ ഒളിഞ്ഞിരിക്കുന്ന ചൂട് അതിനാൽ സോളിഡിഫിക്കേഷന്റെ ഒളിഞ്ഞിരിക്കുന്ന ചൂട് അതിനാൽ ഈ സാഹചര്യത്തിൽ സംഭവിക്കുന്നത് ദ്രവ്യത്തിന്റെ അവസ്ഥ ഖരത്തിൽ നിന്ന് ദ്രാവകത്തിലേക്ക് മാറുന്നു പക്ഷേ സാധാരണയായി നമുക്ക് അറിയാവുന്നതുപോലെ ഏത് ഘട്ട മാറ്റ രീതിയും ഉരുകുന്നത് താപനില അല്ലെങ്കിൽ സാച്ചുറേഷൻ താപനിലയാണ് ഉദാഹരണത്തിന് നിങ്ങൾ ദ്രാവകത്തിൽ നിന്ന് വാതകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഈ ഘട്ടത്തിലെ മാറ്റത്തിലെ താപനില സ്ഥിരമായി തുടരും എന്നിരുന്നാലും നമ്മൾ ഊർജ്ജം സംഭരിക്കുന്നത് ഘട്ടം ഘട്ടമായി മാറ്റുകയും തുടർന്ന് ഊർജ്ജം തിരിച്ചും വലിക്കുകയും ചെയ്യുന്നു അതാണ് ഞാൻ ഇവിടെ താപ ഊർജ്ജ സംഭരണം കാണിക്കുന്നത് അപ്പോൾ എന്താണ് താപ ഊർജ്ജ സംഭരണം പിന്നീടുള്ള ഉപയോഗത്തിനായി അധിക താപ ഊർജ്ജം ശേഖരിക്കാൻ ഇത് അനുവദിക്കുന്നു ഇനി എന്താണ് പിന്നീടുള്ള ഉപയോഗം പിന്നീടുള്ള ഉപയോഗം ദിവസത്തിനുള്ളിൽ മണിക്കൂറുകൾക്കുള്ളിൽ ആകാം ഇൻസുലേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ മാസങ്ങൾ പോലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഉദാഹരണത്തിന് ശേഖരിച്ച സോളാർ കളക്ടറുകളിൽ നിന്നുള്ള വേനൽ ചൂട് ശൈത്യകാലത്ത് ഉപയോഗിക്കുന്നതിന് ഇത് കാലാനുസൃതമായി സൂക്ഷിക്കാം ഇത് എളുപ്പമല്ല പക്ഷേ അത് സാധ്യമാണ് ശൈത്യകാലത്തെ വായുവിൽ നിന്ന് ലഭിക്കുന്ന സമാനമായ തണുപ്പ് വേനൽക്കാല എയർ കണ്ടീഷനിംഗിനായി നൽകാം വീണ്ടും എളുപ്പമല്ല പക്ഷേ അത് സാധ്യമാണ് ഈ അടുത്ത 2 ബുള്ളറ്റുകൾ സെൻസിബിൾ ഹീറ്റ് സ്റ്റോറേജും ലാറ്റന്റ് ഹീറ്റ് സ്റ്റോറേജും ആണ് അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ് അതിനാൽ നമ്മൾ അടുത്തതായി എന്തുചെയ്യും സെന്സിബിൽ ഹീറ്റ് സംഭരണത്തിന്റെയോ ഊർജ്ജ സംഭരണത്തിന്റെയോ കീഴിൽ നമ്മൾ ചെയ്യുന്നത് സാധാരണയായി ഉയർന്ന താപ പിണ്ഡം ഉപയോഗിക്കുന്നു എന്നതാണ് അതായത് നമ്മൾ സംഭരിക്കുന്ന ഊർജ്ജത്തിന്റെ അളവ് Q എന്ന് വിളിക്കുന്നു m മാസ്സ് ആണ് ഇത് നിശ്ചിത താപ സമയം ∆T ആണ് അതിനാൽ നമുക്ക് വോളിയം നൽകിയിട്ടുണ്ടെന്ന് പറയാം ഇത് എനിക്ക് ρ V Cp ∆T എന്ന് എഴുതാം ഇവിടെ ρ സാന്ദ്രത V എന്നത് വോളിയം ആയതിനാൽ സാന്ദ്രത ടൈംസ് വോളിയം പിണ്ഡമാണ് ഇപ്പോൾ തന്നിരിക്കുന്ന ∆T ക്ക് ρ ഉയരുമ്പോൾ Q വർദ്ധിക്കുകയും അതോടൊപ്പം Cp വർദ്ധിക്കുകയും ചെയ്യുന്നു അതിനാൽ നമുക്ക് വേണ്ടത് ρ മടങ്ങ് Cp ന്റെ ഈ പ്രോഡക്റ്റ് ആവശ്യമാണ് പരമാവധി ഊർജ്ജ സംഭരണത്തിനായി നമുക്ക് പരമാവധി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ ഉയർന്ന താപ ജഡത്വമോ ഉയർന്ന താപ പിണ്ഡമോ ആവശ്യമുള്ളതിനാൽ ഇതും ചിലപ്പോൾ പ്രകടിപ്പിക്കപ്പെടുന്നു എന്നാണ് ഇതിനർത്ഥം രണ്ടും ഒരുമിച്ച് പോകുന്നു നമ്മൾക്ക് ρCp പരമാവധിയാക്കണം ഈ അളവ് പരമാവധിയാക്കേണ്ടതുണ്ട് ഇതാണ് താപ പിണ്ഡം അതിനാൽ ഇത് നമുക്ക് പരമാവധിയാക്കേണ്ടതുണ്ട് അതിനാൽ ഇപ്പോൾ ഇതുവരെ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകം ഒരു തരത്തിലുള്ള സെൻസിബിൾ എനർജി സ്റ്റോറേജ് നോക്കിയിട്ടുണ്ട് അതാണ് പുനരുൽപ്പാദന ഹീറ്റ് എക്സ്ചേഞ്ചറുകൾ അതിനാൽ പുനരുൽപ്പാദന ഹീറ്റ് എക്സ്ചേഞ്ചറിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഒരു ചൂടുള്ള ദ്രാവകം കടന്നുപോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതാണ് പുനരുൽപ്പാദന താപ വിനിമയത്തിനുള്ളിലെ വസ്തുക്കൾ പാക്ക് ചെയ്ത മണൽ അല്ലെങ്കിൽ കല്ലുകൾ നിറഞ്ഞ ഒരു കിടക്ക എന്ന് നമുക്ക് പറയാം അത് ചൂട് ആഗിരണം ചെയ്യുകയും ദ്രാവകം തണുക്കുകയും ചെയ്യുന്നു അത് ചൂട് നിലനിർത്തുന്നു അത് വേണ്ടത്ര ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കണം പിന്നീട് അതേ പായ്ക്ക് ചെയ്ത കിടക്കയിലൂടെ ഒരു തണുത്ത ദ്രാവകം കടന്നുപോകുമ്പോൾ അത് ചൂട് വേർതിരിച്ചെടുക്കുന്നു അല്ലെങ്കിൽ ഈ പായ്ക്ക് ചെയ്ത കിടക്ക തണുത്ത ദ്രാവകത്തിലേക്ക് ചൂട് പുറത്തുവിടുകയും അത് വ്യക്തമായി ചൂടാക്കുകയും ചെയ്യുന്നു ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത് അതിനാൽ നമ്മൾ ഇതിനകം കണ്ടിട്ടുള്ള സെന്സിബിൾ തെർമൽ എനർജി സ്റ്റോറേജിന്റെ ഒരു മാർഗമാണിത് അതിനാൽ ഇവിടെ പായ്ക്ക് ചെയ്ത കിടക്കകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ജൈവ ദ്രാവകങ്ങൾ ഇവിടെ സംഭവിക്കും നമ്മൾ ചെയ്യുന്നത് ഒരു പുനരുൽപ്പാദന രീതിയിലാണ് നമുക്ക് ഒരു ജൈവ ദ്രാവകത്തോടൊപ്പം ചൂടുള്ള ദ്രാവക കൈമാറ്റ ചൂട് ഉണ്ടാകും നമ്മൾ ദ്രാവകം തിരഞ്ഞെടുക്കും താപ പിണ്ഡം കൂടുതലാണ് പിന്നീട് അത് പുറത്തുവിടാൻ പോകുന്നു ഫ്ളൂയിഡൈസ്ഡ് സോളിഡ് ബെഡ്സ് മറ്റൊരു ഉദാഹരണമാണ് എന്നിരുന്നാലും ഇന്ന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രെഷറൈസ്ഡ് വാട്ടർ സ്റ്റോറേജ് ആണ് നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ പോകുന്നു ലാറ്റെന്റ് ഹീറ്റ് എനർജി സ്റ്റോറേജ് നമ്മൾ സംസാരിച്ചതുപോലെ ഫ്യുഷൻന്റെ ചൂട് ഉപയോഗിക്കുന്നു നമുക്ക് ചില ഉദാഹരണങ്ങൾ കാണാം അതിനാൽ ആ ആമുഖത്തോടെ നമുക്ക് സെന്സിബിൾ തെർമൽ എനർജി സ്റ്റോറേജിൽ പോകുകയും പ്രെഷറൈസ്ഡ് വാട്ടർ സ്റ്റോറേജ്ന്റെ ഉദാഹരണം എടുക്കുകയും ചെയ്യാം അതിനാൽ പ്രെഷറൈസ്ഡ് വാട്ടർ സ്റ്റോറേജ് വീണ്ടും ഞാൻ ഒരു സ്കീമാറ്റിക് കാണിക്കുന്നു എന്റെ മുൻ അധ്യാപകൻ പ്രൊഫസർ പി നാഗ് Professor P Nag ന്ന് ഞാൻ എന്റെ നന്ദി പ്രകടിപ്പിക്കുന്നു ഇത് അദ്ദേഹത്തിന്റെ കുറിപ്പുകളിൽ നിന്ന് ഞാൻ വർഷങ്ങൾക്കുമുമ്പ് പഠിച്ചതാണ് പക്ഷേ ഇത് ഇപ്പോഴും വളരെയധികം ഉപയോഗിക്കുന്നു ഇത് വളരെ നല്ലതാണ് വളരെ ആകർഷകമായ സാങ്കേതികവിദ്യയാണ് പതിവായി ഇതിൽ ഉപയോഗിക്കുന്നത് അതിനാൽ ഞാൻ ചുവടെ കാണിച്ചിരിക്കുന്നത് പ്രെഷറൈസ്ഡ് വാട്ടർ സ്റ്റോറേജ്ന്റെ പ്രവർത്തനത്തെ നന്നായി വിശദീകരിക്കുന്ന ഒരു ലിങ്കാണ് അതിനാൽ കടന്നുപോകാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും ഈ ലിങ്കും പ്രെഷറൈസ്ഡ് വാട്ടർ സ്റ്റോറേജ്ക്കുറിച്ച് വായിക്കുക ഈ എഴുത്ത് കൂടുതൽ വ്യാവസായിക മേഖലയിലാണ് ഫോർബ്സ് മാർഷലിന്റെ വ്യാവസായിക വീക്ഷണകോണിൽ നിന്നാണ് കൂടുതൽ എഴുതിയതെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ അവർ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന് നമ്മൾക്ക് ഒരു നല്ല അനുഭവവും ഇത് നൽകും ഇനി നമുക്ക് ഇവിടെ ജല സംഭരണത്തിലേക്ക് വരാം ജല സംഭരണത്തിൽ സമ്മർദ്ദം ചെലുത്തുക നമുക്ക് അധിക ഊർജ്ജ ഉൽപ്പാദനം ഉണ്ടാകുമ്പോഴോ അടിസ്ഥാനപരമായി ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴോ ആണ് ഇത് ചെയ്യുന്നത് തിരക്കേറിയ സമയങ്ങളിൽ എനിക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഇവിടെയുള്ള ഒരു സ്റ്റീം ടർബൈനിലൂടെയെന്ന് നമുക്ക് പറയാം പിന്നീട് ചെയ്യുന്നത് ഈ ഉയർന്ന മർദ്ദമുള്ള നീരാവിയിലെ ഒരു ഭാഗമാണ് അത് ഉയർന്ന മർദ്ദ ഘട്ടത്തിൽ വികസിപ്പിക്കുന്നതിനുമുമ്പ് ടർബൈനിലേക്ക് പ്രവേശിക്കുന്നു നീരാവിയുടെ ഭാഗം പുറത്തെടുക്കുന്നു അത് പുറത്തെടുക്കുമ്പോൾ അത് സ്റ്റീം അക്യുമുലേറ്റർ എന്ന് വിളിക്കപ്പെടുന്നവയിലേക്ക് നൽകപ്പെടുന്നു നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഒരു സ്റ്റീം അക്യുമുലേറ്റർ യഥാർത്ഥത്തിൽ ഒരു സിലിണ്ടർ പാത്രമാണ് അതിലൂടെ കടന്നുപോകുന്ന ഈ നോസിലുകളിലൂടെ നീരാവി കുത്തിവയ്ക്കുന്നത് വളരെ വലുതായിരിക്കും ഉയർന്ന ഊഷ്മാവിൽ ജലം അടങ്ങുന്ന ഒരു വലിയ പാത്രമാണ് യഥാർത്ഥത്തിൽ സ്റ്റീം അക്യുമുലേറ്റർ ഈ നോസിലുകളിലൂടെ നീരാവി കുത്തിവയ്ക്കപ്പെടുന്നു ഞാൻ വീണ്ടും മുമ്പത്തെ സ്ലൈഡിലേക്ക് മടങ്ങട്ടെ ഇവയാണ് നീരാവി കുത്തിവയ്ക്കുന്ന നീരാവി ശേഖരണികൾ കുത്തിവച്ച ഈ നീരാവി ഒന്നുകിൽ പൂരിത താപനിലയിൽ ആകാം അല്ലെങ്കിൽ അമിതമായി ചൂടാക്കാം എന്നത് പ്രശ്നമല്ല ഇപ്പോൾ നീരാവി വന്ന് വെള്ളവുമായി കലരുന്നതിനനുസരിച്ച് ജലത്തിന്റെ താപനിലയും വർദ്ധിക്കുന്നു സമ്മർദ്ദം ഇതിനകം ഉയർന്നതാണ് അതിനാൽ സമ്മർദ്ദവും സാധാരണഗതിയിൽ ഉയരുന്നു ഒടുവിൽ നിങ്ങൾ നിങ്ങൾക്കുള്ളത് ആ ഉയർന്ന മർദ്ദത്തിലും ആ സാച്ചുറേഷൻ താപനിലയുമായി ബന്ധപ്പെട്ട താപനിലയിലും ഉള്ള ജലമാണ് അക്യുമുലേറ്റർ യഥാർത്ഥത്തിൽ ഉയർന്ന മർദ്ദമുള്ള ടാങ്കുകളാണ് അതിൽ സാച്ചുറേഷൻ താപനിലയിൽ വെള്ളവും നീരാവിയും അടങ്ങിയിരിക്കുന്നു അതിനാൽ തിരക്കേറിയ സമയങ്ങളിൽ ഇത് സംഭവിക്കുന്നു തിരക്കേറിയ സമയങ്ങളിൽ സംഭവിക്കുന്നത് അവ നീരാവി പുറന്തള്ളുന്നു അത് നമ്മൾ പീക്കിങ് ടർബൈൻ എന്ന് വിളിക്കുന്നതിലേക്ക് പോകുന്നു നീരാവി താഴ്ന്ന മർദ്ദത്തിലേക്ക് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഈ അക്യുമുലേറ്റർ താഴ്ന്ന മർദ്ദത്തിന് വിധേയമാകുമ്പോൾ സംഭവിക്കുന്നത് ഒരു ഫ്ലാഷ് ബാഷ്പീകരണമായിരിക്കും അതിനാൽ നീരാവി ഇവിടെ പോകുകയും ഈ ടർബൈനിൽ വികസിക്കുകയും അധിക വൈദ്യുതി ഉത്പാദിപ്പിക്കുകയും ജലത്തിന്റെ മർദ്ദം കുറയുകയും ചെയ്യും അതിനാൽ തിരക്കേറിയ സമയങ്ങളിലും പീക്കിംഗ് ടർബൈനും നമുക്ക് ആവശ്യമായ അധിക വൈദ്യുതി ഉത്പാദനം നൽകുന്നു അത് അടിസ്ഥാന ലോഡിന് മുകളിലൂടെ നമുക്ക് ആവശ്യമുണ്ട് പിന്നെ തിരക്കില്ലാത്ത സമയങ്ങളിൽ സംഭവിക്കുന്നത് തിരക്കേറിയ സമയങ്ങളിൽ വീണ്ടും അതേ നീരാവിയാണ് ഈ ടർബൈനിൽ നിന്ന് ആവശ്യമായ ഈ ഊർജ്ജം ഈ നീരാവിയുടെ വോളിയം ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ നീരാവിയുടെ മാസ് ഫ്ലോ റേറ്റ് നൽകുന്നതിനേക്കാൾ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും നീരാവി വീണ്ടും അക്യുമുലേറ്ററുകളിലേക്ക് ഒഴുകും അതിനാൽ ഈ ഓഫ് പീക്ക് ആൻഡ് പീക്ക് മുൻ കേസുകളിലേത് പോലെ ഒന്നിനുപുറകെ ഒന്നായി തുടർച്ചയായി ഒരു ചാക്രിക രീതിയിൽ തുടരുന്നു ഈ ചർച്ചയ്ക്ക് ശേഷം നമുക്ക് ഈ ബുള്ളറ്റ് പോയിന്റുകളിലൂടെ പോകാം ഓഫ് പീക്ക് സമയത്ത് HRSG ൽ കൂടുതൽ നീരാവി ഉത്പാദിപ്പിക്കപ്പെടുന്നു എന്താണ് HRSG HRSG എന്നത് ഇപ്പോൾ ഉത്പാദിപ്പിക്കുന്ന ഹീറ്റ് റിക്കവറി സ്റ്റീം ആണ് നിങ്ങൾക്ക് HRSG എന്ന പദം ഇതിനകം പരിചിതമാണെന്ന് ഞാൻ കരുതുന്നു അവിടെയാണ് പ്രാഥമിക തപീകരണ ദ്രാവകം അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ജ്വലന വാതകങ്ങൾ ഉപയോഗിച്ച് വെള്ളത്തിൽ നിന്ന് ആവി ഉത്പാദിപ്പിക്കുന്നത് അപ്പോൾ അധിക നീരാവി ഉയർന്ന മർദ്ദത്തിൽ ടർബൈനിൽ നിന്ന് ആവി ഒഴുകുന്നു വീണ്ടും ഓർക്കുക ഉയർന്ന മർദ്ദത്തിൽ ഇത് പ്രധാനമാണ് കാരണം നിങ്ങൾ ടർബൈനിന്റെ എക്സ്ഹോസ്റ്റിൽ നിന്ന് പുറന്തള്ളുകയാണെങ്കിൽ അത് ഇതിനകം തന്നെ താഴ്ന്ന മർദ്ദത്തിലായതിനാൽ അത് സഹായിക്കില്ല ഒരു പ്രഷറൈസ്ഡ് സ്റ്റോറേജ് ആകുകയില്ല അതുകൊണ്ടാണ് ടർബൈനിന്റെ പ്രാരംഭ ഘട്ടത്തിൽ ഉയർന്ന മർദ്ദത്തിൽ ഇത് ഡിസ്ചാർജ് ചെയ്യുകയോ പുറന്തള്ളുകയോ ചെയ്യേണ്ടത് കൂടാതെ പൂരിത മർദ്ദം ഉള്ള വെള്ളം ശുദ്ധമായി ഉൽപ്പാദിപ്പിക്കുന്നതിന് അത് സ്ടീം അക്യുമുലേറ്ററുകളിലേക്ക് നൽകുകയും ചെയ്യുന്നു ഇപ്പോൾ തിരക്കേറിയ സമയങ്ങളിൽ സംഭവിക്കുന്നത് അക്യുമുലേറ്ററുകൾ ഡിസ്ചാർജ് ചെയ്യുന്നതാണ് അതിനാൽ അവ തുറന്നുകാട്ടപ്പെടുന്നത് വെള്ളം ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു അതിന്റെ ഫലമായി സംഭവിക്കുന്നത് ഇതാണ് മർദ്ദം പെട്ടെന്ന് കുറയുന്നത് കാരണം ഒരു ഫ്ലാഷ് തിളപ്പിക്കൽ അല്ലെങ്കിൽ ഫ്ലാഷ് ബാഷ്പീകരണവും ഉണ്ടാകുന്നു നീരാവി രക്ഷപ്പെടുകയും താരതമ്യേന ഉയർന്ന മർദ്ദത്തിൽ ഈ ടർബൈനിലൂടെ കടന്നുപോകുകയും അത് അധിക വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും തുടർന്ന് ഘനീഭവിച്ച നീരാവി ഒരു കണ്ടൻസറിലേക്ക് പോകുകയും പ്രധാന ലൂപ്പിലേക്ക് തിരികെ ഒഴുകുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ എക്സസൈസോ ഗണിതശാസ്ത്രപരമായ എക്സസൈസോ ചെയ്യാൻ പോകുന്നു എന്നതാണ് നമുക്ക് എത്രമാത്രം ഊർജ്ജം സംഭരിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള സംഖ്യകൾ നമുക്ക് മനസ്സിലാക്കാം അതിനായി നമ്മൾ ചെയ്യേണ്ടത് സ്റ്റീം അക്യുമുലേറ്ററിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെന്ന് പറയാം അല്ലെങ്കിൽ പ്രഷറൈസ്ഡ് വാട്ടർ സ്റ്റോറേജ് എന്ന് പറയാം അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു സിലിണ്ടറിന്റെ രൂപത്തിൽ സമ്മർദ്ദമുള്ള ജലസംഭരണത്തെ പ്രതിനിധീകരിക്കും എന്നതാണ് അക്യുമുലേറ്റർ ഒരു സിലിണ്ടറിന്റെ രൂപത്തിലാണ് അക്യുമുലേറ്ററിലേക്ക് നീരാവി വിതരണം ചെയ്യുന്ന ഉയർന്ന മർദ്ദം 20 ബാറിന് തുല്യമാണെന്നും ഡിസ്ചാർജ് ചെയ്യുമ്പോൾ താഴ്ന്ന മർദ്ദം 2 ബാറാണെന്നും നമുക്ക് അനുമാനിക്കാം അതിനാൽ എനിക്ക് സ്റ്റോറേജ് ഡെൻസിറ്റി എന്നൊരു പദം നിർവചിക്കാം ഇത് 1 ഓവർ സ്പെസിഫിക് വോളിയത്തിന് ന് തുല്യമായിരിക്കും അതിനാൽ 1 ഓവർ സ്പെസിഫിക് വോളിയം ഡിവൈഡഡ് ബൈ hf ഓഫ് ഫ്ലൂയിഡ് ഇന്റു ന് തുല്യമായിരിക്കും അതിനാൽ വീണ്ടും നമ്മൾ ഈ മൂല്യങ്ങൾ എടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന സ്റ്റീം ടേബിളുകൾ നോക്കുകയാണെങ്കിൽ ഒരു 20 ബാർ സാച്ചുറേഷൻ മർദ്ദം യഥാർത്ഥത്തിൽ 212oC ആണെന്നും ഇവിടെ സാച്ചുറേഷൻ മർദ്ദം 120oC ആണെന്നും നിങ്ങൾ കാണും അതിനാൽ നിങ്ങൾ ഇപ്പോൾ സ്റ്റീം ടേബിളുകളിൽ നിന്നുള്ള എന്താൽപികൾ നോക്കുകയോ നിങ്ങൾക്ക് സൌകര്യപ്രദമായ EES ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആദ്യം കാണുന്നത് പൂരിത സാഹചര്യങ്ങളിൽ സാച്ചുറേഷൻ താപനിലയിലും മർദ്ദത്തിലും 20 ബാറിലെ ദ്രാവക നിർദ്ദിഷ്ട വോളിയം 0011766 ആണ് 20 ബാറിൽ ദ്രാവക നിർദ്ദിഷ്ട അളവ് 908 5 ഉം എന്താല്പ്പികൾ 504 5 ഉം ആണ് അതിനാൽ 1 സംഭരിച്ചിരിക്കുന്ന അവസ്ഥയിലോ ഉയർന്ന മർദ്ദത്തിലോ ആണെന്നും 2 ശൂന്യമായ അവസ്ഥയിലോ ഡിസ്ചാർജ് ചെയ്യപ്പെടുമ്പോഴോ ആണെന്ന് പറയാം അതിനാൽ ഇത് 343167kJm3 ആയി മാറുന്നു അല്ലെങ്കിൽ ഇത് 95 3kWHm3 ആയി മാറുന്നു മിക്ക വീട്ടുപകരണങ്ങളായ ടോസ്റ്റർ അല്ലെങ്കിൽ മൈക്രോവേവ് എന്നിവ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ അവയ്ക്ക് ചുറ്റും 1kW റേറ്റിംഗ് ലഭിക്കും അതിനാൽ ഒരു കിലോവാട്ട് മണിക്കൂർ തീർച്ചയായും അത്തരം ഒരു ഉപകരണം പ്രവർത്തിക്കുന്നു കുറഞ്ഞത് ചൂടാക്കി 1 മണിക്കൂർ നേരിട്ട് മൈക്രോവേവ് പ്രവർത്തിപ്പിക്കരുത് അല്ലെങ്കിൽ 1 മണിക്കൂർ ടോസ്റ്റർ അത് പ്രാധാന്യമർഹിക്കുന്നു എന്നാൽ അത് പോലെയുള്ള ഏതൊരു ഉപകരണവും 1kWH എന്ന 1 മണിക്കൂർ പ്രവർത്തിപ്പിച്ചാൽ അത് വളരെ ഉയർന്ന പവർ അല്ല എന്നാൽ ഇത് ഒരു മീറ്ററിന് ക്യൂബുള്ളതാണ് അതിനാൽ ഇത് നിങ്ങൾക്ക് ഒരു അനുഭവം നൽകുന്നു ദിവസേന 1000MWH 1000 മെഗാവാട്ട് മണിക്കൂറിന്റെ പരിധി നിങ്ങൾക്ക് അറിയാവുന്ന ഊർജ്ജം ശരിക്കും സംഭരിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അക്യുമുലേറ്ററിന്റെ വലുപ്പം നിങ്ങൾക്ക് നന്നായി അനുഭവപ്പെടും നമ്മൾ അതിനെ കുറിച്ചും ഒരു വിശകലനം നടത്തും അതിനാൽ ഇത് സംഭരണ സാന്ദ്രത 1 ആണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഒരുപക്ഷെ ഞാൻ ഇത് വീണ്ടും സിലിണ്ടർ പാത്രം വലത്തേക്ക് വരയ്ക്കട്ടെ അതിനാൽ ഇപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഉയർന്ന ഊഷ്മാവ്ൽ ചൂടാക്കുമ്പോൾ അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തിയ വെള്ളം സംഭരിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ അത് ഉപയോഗിക്കാൻ പോകുന്നില്ല അത് ഉടനടി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഉടൻ ഡിസ്ചാർജ് ചെയ്യുകയോ ഇല്ല പീക്ക് സമയങ്ങളിൽ പിന്നീട് ഡിസ്ചാർജ് ചെയ്യും അത് സംഭരിക്കുമ്പോൾ സംഭവിക്കുന്നത് അത് തുടക്കത്തിൽ തന്നെ എഴുതട്ടെ ഉയർന്ന ഊഷ്മാവിൽ വെള്ളം അടങ്ങിയിരിക്കുന്ന അക്യുമുലേറ്റർ തുറന്നുകാട്ടപ്പെടുന്നു സംഭരണം വ്യക്തമാക്കുന്ന സമയത്ത് അക്യുമുലേറ്റർ ഒരു തണുത്ത അന്തരീക്ഷത്തിലേക്ക് തുറന്നുകാണിക്കുന്നു എന്ന് ഞാൻ ആദ്യം പറയുന്നത് നീക്കം ചെയ്യട്ടെ അതിനർത്ഥം എന്റെ പ്രാരംഭ ഊഷ്മാവ് അല്ലെങ്കിൽ അക്യുമുലേറ്ററിന്റെ താപനില T ആണെന്നും പുറത്ത് T ആംബിയന്റ് ആയ ഒരു തണുത്ത അന്തരീക്ഷം ഉണ്ടെന്നും പറയാം അതിനാൽ സംഭവിക്കാൻ പോകുന്നത് ഉപരിതലത്തിൽ നിന്ന് സംവഹന നഷ്ടങ്ങൾ ഉണ്ടാകും അത് h T T∞ ആയിരിക്കും അതിനാൽ സംവഹനത്തിലൂടെ താപം നഷ്ടപ്പെടുമെന്ന് പറയാം അതിനാൽ തിരക്കേറിയ സമയങ്ങളിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം ഡിസ്ചാർജ് ചെയ്യുകയും വേർതിരിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ ഞാൻ സംഭരിച്ച ഊർജ്ജത്തിന്റെ അളവ് എനിക്ക് ലഭിക്കാൻ പോകുന്നില്ല വിശകലനത്തിനായി നഷ്ടം എങ്ങനെ കണക്കാക്കാൻ ലംപ്ഡ് കപ്പാസിറ്റൻസ് അനുമാനിക്കുക എന്ന രീതിയാണ് നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ലംപ്ഡ് കപ്പാസിറ്റൻസ് രീതി എന്താണെന്ന് ഓർക്കുക ക്ഷണികമായ വിശകലനത്തിലെ താപ കൈമാറ്റത്തിലെ ഒരു ലംപ്ഡ് കപ്പാസിറ്റൻസ് രീതി തണുപ്പിക്കുന്ന ശരീരം മുഴുവൻ ഒരു ഏകീകൃത താപനിലയിലാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു നിങ്ങൾ അത് ഓർക്കുകയാണെങ്കിൽ ബയോ നമ്പർ 1 ൽ വളരെ കുറവായിരിക്കുമ്പോൾ സംഭവിക്കുന്നു പോയിന്റ് 1 ഉം മറ്റും പരോക്ഷമായി അർത്ഥമാക്കുന്നത് ഒന്നുകിൽ ബാഹ്യ ഉപരിതലത്തിലെ താപ ട്രാൻസ്ഫർ കോഫിഫിഷ്യന്റ് വളരെ കുറവാണ് അല്ലെങ്കിൽ മെറ്റീരിയലിന്റെ താപ ചാലകത വളരെ ഉയർന്നതാണ് എന്നാണ് അതിനാൽ ഈ അവസ്ഥകളിൽ നിങ്ങൾക്ക് ലംപ്ഡ് കപ്പാസിറ്റൻസ് ഉപയോഗിക്കാം ഒരു ഗണിതശാസ്ത്ര വ്യവസ്ഥ 0 1 ൽ കുറവായിരിക്കേണ്ട ഒരു ബയോ നമ്പർ ഉണ്ട് എന്നാൽ ശാരീരികമായി അത് അർത്ഥമാക്കുന്നത് ക്ഷണികമായ തണുപ്പിനായി നമ്മൾ വിശകലനം ചെയ്യുന്ന ശരീരത്തിലുടനീളം സ്പേഷ്യൽ വ്യതിയാനങ്ങളൊന്നുമില്ല എന്നതാണ് അതിനാൽ ഇത് പ്രാഥമികമായി 2 കാര്യങ്ങൾ അർത്ഥമാക്കാം ഒന്ന് പുറത്തുള്ള താപ കൈമാറ്റ ഗുണകം വളരെ കുറവാണ് അല്ലെങ്കിൽ മെറ്റീരിയലിന്റെ താപ ചാലകത തീർച്ചയായും വളരെ ഉയർന്നതാണ് മൂന്നാമത്തേത് വോളിയം വളരെ ചെറുതാണ് അതിനാൽ സ്പേഷ്യൽ വ്യതിയാനം നിസ്സാരമാണെന്ന് പറയുക അത് മൂന്നാമത്തേതാണ് എന്നാൽ ഒരു നിശ്ചിത വോള്യത്തിന് ഇവയാണ് 2 വ്യവസ്ഥകൾ ഇപ്പോൾ ഈ കേസ് തൃപ്തികരമാകണമെങ്കിൽ ഒരുപക്ഷേ അത് h കുറവായിരിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ ഇത് ശരിക്കും ഒരു സിലിണ്ടർ പാത്രത്തിലുള്ള വെള്ളമാണ് ഇത് ശരിക്കും ഉയർന്ന താപ ചാലകമല്ലാത്തതോ അറിയാത്തതോ ആണ് വളരെ കാര്യക്ഷമമായ തെർമൽ കണ്ടക്ടറാകാൻ എന്നിട്ടും ഞാൻ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് കാരണം എന്താണ് അർത്ഥമാക്കുന്നത് താപനിലയിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടാകുമെന്നും ഉപരിതലത്തിൽ അത് കുറവായിരിക്കുമെന്നും അർത്ഥമാക്കുന്നു അതിനാൽ ഞാൻ ലംപ് കപ്പാസിറ്റൻസ് ഉപയോഗിക്കുകയും പരമാവധി താപനില ഉപയോഗിക്കുകയും ചെയ്യുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ നഷ്ടം കണക്കാക്കുന്നതിൽ കൂടുതലാണ് അതിനാൽ ഇത് ഒരു യാഥാസ്ഥിതിക അനുമാനമാണ് ആ അനുമാനത്തോടെ നമ്മൾ മുന്നോട്ട് പോകും ഞാൻ ലംപ് കപ്പാസിറ്റൻസ് വിശകലനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകില്ല നിങ്ങളുടെ ഹീറ്റ് ട്രാൻസ്ഫർ അറിവിൽ നിന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റാൻഡേർഡ് പാഠപുസ്തകം റഫർ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഞാൻ ചെയ്യേണ്ടത് T θ ഓവർ θi ആണ് ഇത് T T∞ ഓവർ Ti T∞ ആയി നൽകിയിരിക്കുന്നു എന്താണ് Ti അതിനാൽ ഞാൻ അത് ഇവിടെ എഴുതാം TTi എന്നത് τ0 യിലെ പ്രാരംഭ താപനിലയാണ് T എന്നത് തീർച്ചയായും സമയത്തിന്റെ ഒരു ഫംഗ്ഷനാണ് τ എന്നത് സമയമാണ് അതിനാൽ ഇതാണ് ലംപ്ഡ് കപ്പാസിറ്റൻസ് രീതി എന്ന് അറിയപ്പെടുന്നത് ഇത് എന്ന് ലഭിക്കും പലപ്പോഴും ഇത് സ്ഥിരാങ്കം അല്ലെങ്കിൽ സമയ സ്ഥിരാങ്കം എന്നും അറിയപ്പെടുന്നു അതിനാൽ നമ്മൾ എന്ന് എഴുതുന്നു ഈ പദം ഞാൻ Tc അല്ലെങ്കിൽ സമയ സ്ഥിരാങ്കം കൊണ്ട് സൂചിപ്പിക്കും അതിനാൽ എനിക്ക് ഇത് എഴുതാം ന് തുല്യമായിരിക്കും അതിനാൽ τ സമയത്തിന് ശേഷം നമുക്ക് ഈ പദപ്രയോഗം ഉണ്ട് ആ സമയത്തെ താപനില τ ഈ പദപ്രയോഗം ശരിയാണ് അതിനാൽ τ സമയത്തിന് ശേഷം കാര്യക്ഷമതയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു പദത്തെ ഞാൻ നിർവചിക്കും അത് നമ്മൾ മുമ്പ് കണ്ടതുപോലെ τ വിൽ ശേഷിക്കുന്ന ഊർജ്ജത്തെ യഥാർത്ഥ ഊർജ്ജം കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്നു അത് നമുക്ക് എന്ന് കാണിക്കാം ഇത് ഗ്രാഫിക്കായി പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഇത് ഇതുപോലെയായിരിക്കും ഇത് താപനിലയും ഇതാണ് സമയവുമാണെങ്കിൽ ഞാൻ Ti ഉപയോഗിച്ച് ആരംഭിച്ചു കാലക്രമേണ താപനില ഗണ്യമായി കുറയുന്നു ഒരുപക്ഷേ ഈ ഘട്ടത്തിൽ ഇത് നമ്മൾ പറയുന്നത് τ1 ന് തുല്യമാണ് ഇത് τ2 ആണ് ഇത് T2 ന് തുല്യമായ T ആണെന്ന് നമുക്ക് പറയാം അതിനാൽ ഇത് കുറഞ്ഞ താപനിലയാണ് അതിനാൽ സംവഹനം മൂലം നഷ്ടപ്പെട്ട ഊർജ്ജത്തിന്റെ അളവ് ലംപ്ഡ് കപ്പാസിറ്റൻസ് രീതി ഉപയോഗിച്ച് ഇവിടെ കണക്കാക്കാം ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു അവിടെ നമ്മൾ താപ ഊർജ്ജ സംഭരണത്തെക്കുറിച്ചും പ്രെഷറൈസ്ഡ് വാട്ടർ സ്റ്റോറെജ്ഉം വിശദാംശങ്ങളോടെ നോക്കി സെന്സിബിൾ തെർമൽ സ്റ്റോറേജിന്റെ ഒരു ഉദാഹരണവും നോക്കി അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ താപ ഊർജ്ജ സംഭരണത്തിന്റെ മറ്റ് ചില ഉദാഹരണങ്ങൾ എടുക്കും എന്നതാണ്